അവസാനമായി നമ്മൾ നിഗമനം ചെയ്തത് ഇവിടെ സൂചിപ്പിച്ച കാന്തികക്ഷേത്രത്തിലെ മാറ്റത്തിനെ താപനിലയിലെ മാറ്റമായി കാണിക്കാൻ കഴിയും എന്നതാണ് കാന്തികക്ഷേത്രത്തിലെ ഈ മാറ്റം നിങ്ങൾ എങ്ങനെ അളക്കും നമുക്ക് ഇവിടെയുളള ഈ നല്ല സജ്ജീകരണം നോക്കാം നമുക്ക് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഈ കാന്തം കാന്തിക വലയത്തിലുള്ള മാറ്റങ്ങളെ പിടിച്ചെടുക്കുന്നു ഈ കാന്തം അതായത് ഈ ആർക്ക് കാന്തിക വലയത്തിലുള്ള മാറ്റങ്ങളെ അളക്കുന്നു ഇതിനെ നമുക്ക് താപനിലയിലുള്ള മാറ്റവുമായി ബന്ധിപ്പിക്കാം ഇതിനു പറ്റിയ ഒരു കാന്തം തിരഞ്ഞെടുക്കേണ്ടത് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട അളവെടുക്കൽ കണ്ടീഷനിംഗ് നിങ്ങൾക്കറിയാം ഇലക്ട്രോണിക് കണ്ടീഷനിംഗ് ചെയ്യേണ്ടതാണ് ഫലപ്രദമായ അളവെടുക്കലിന് സർക്യൂട്ട് ആവശ്യമാണ് അതിനായി ലഭ്യമായ കാന്തങ്ങളെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി 3 തരം കാന്തങ്ങൾ വയ്ക്കാൻ കഴിയും ഒരു തരം കാന്തമാണ് നിയോഡീമിയം അത്തരം കാന്തങ്ങളെ യഥാർത്ഥത്തിൽ എന്ന് എഴുതുന്നു ഇവയെ സാധാരണയായി നിയോഡീമിയം എന്ന് വിളിക്കുന്നു പിന്നെ സമരിയം കോബാൾട്ട് എസ്എം കോ കാന്തങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അൽനിക്കോ അൽ നി കോ ഉണ്ട് നിങ്ങൾക്ക് സെറാമിക് കാന്തങ്ങളും ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് അവയിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം കാന്തം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല സവിശേഷതകളുള്ള വളരെ നിർദ്ദിഷ്ട സവിശേഷതകളുള്ളതായിരിക്കണം കാന്തികക്ഷേത്രത്തിലെ മാറ്റം താപനിലയിലെ മാറ്റവുമായി പൊരുത്തപ്പെടണം ഈ ആവശ്യകത നിറവേറ്റുന്നതായിരിക്കണം കാരണം നിങ്ങൾ ബെയറിംഗിന്റെ താപനിലയാണ് നോക്കുന്നത് അതിനായി നിങ്ങൾ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് കാന്തവുമായി ബന്ധപ്പെട്ട കോയേഴ്സിവിറ്റിയാണ് നിങ്ങൾക്ക് അതിനെ കോയേഴ്സിവിറ്റി എന്ന് വിളിക്കാം നിങ്ങൾ ഈ പ്രോപ്പർട്ടി നോക്കണം കോഴ്സിവിറ്റിയും താപനില കോഫിഫിഷ്യന്റും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് താപനില കോഫിഫിഷ്യന്റ് പ്രധാനമായതിന് കാരണം നിങ്ങൾ താപനില അളക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഞാൻ അതിനെ ചുരുക്കിപ്പറയുകയാണ് ഈ നിയോഡൈമിയംകാന്തത്തിന് ഏറ്റവും ഉയർന്ന കോയേഴ്സിവിറ്റിയാണ് ഞാൻ ആ സംഖ്യ 30 എന്ന് എഴുതാൻ പോകുന്നു തീർച്ചയായും ഒരു യൂണിറ്റ് ഉണ്ട് കോയേഴ്സിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഇതിന് 0 11 ° C താപനില കോഫിഫിഷ്യന്റും ഉണ്ട് ഈ മൈനസ് ചിഹ്നം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് തികച്ചും വ്യക്തമാണ് പക്ഷേ ഇത് ശരിക്കും 0 11 ° C എന്ന് എഴുതിയത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ നിങ്ങൾ അൽപ്പം ചിന്തിക്കേണ്ടി വരും അതിനാൽ നിങ്ങൾ ഇപ്പോൾ തിരിച്ചുവന്നാൽ ഇവിടെയുള്ള താപനില അളക്കണം ഇതാണ് ബാൾ ബെയറിംഗ് ഇത് ഞാൻ തിരഞ്ഞെടുക്കേണ്ട ഒരു കാന്തമാണ് നിങ്ങൾ ഐഒടികൾക്കായി രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഓപ്ഷനെക്കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക രൂപകൽപ്പനയോട് പക്ഷപാതപരമായി സംസാരിക്കാൻ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം ഡിസൈൻ വളരെ ഒപ്റ്റിമൽ ആയിരിക്കണം ഡിസൈൻ നിങ്ങൾ നോക്കുന്ന ആവശ്യകതയ്ക്ക് യോജിച്ചതായിരിക്കണം നിങ്ങൾ ഡിസൈൻ പുറത്തുവരുന്നത് കാണുക താപനിലയിലെ മാറ്റം അളക്കുന്നതിന് കാന്തങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു അതിനായി നമ്മൾ നാല് വ്യത്യസ്ത കാന്തങ്ങളായ നിയോഡീമിയം സമരിയം കോബാൾട്ട് അൽനിക്കോയും പിന്നെ സെറാമിക്കും പറഞ്ഞു നിങ്ങൾ അവയിലൊന്ന് വീണ്ടും തിരഞ്ഞെടുക്കണം അതിനർത്ഥം പ്രധാനമായും ഡിസൈൻ എന്നത് ഒരു രീതി മാത്രമല്ല നിങ്ങൾ ഡിസൈൻ ഇതരമാർഗ്ഗങ്ങൾ നോക്കിക്കൊണ്ട് സാധ്യമായ മികച്ചത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതി ബാൾ ബെയറിംഗ് താപനില അളക്കുന്നതിനുള്ള ഉചിതമായ മാർഗ്ഗമായത് എന്തുകൊണ്ട് നമ്മൾ ഇൻവേസീവ് അല്ലാത്ത താപനില സെൻസർസംവിധാനങ്ങൾ ഉപയോഗിക്കാത്തത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം പറയാം നമുക്ക് വീണ്ടും സജ്ജീകരണത്തിലേക്ക് പോകാം നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം മിക്കപ്പോഴും ഈ ബെയറിംഗുകൾ ഓട്ടോമോട്ടീവുകളിൽ ആഴത്തിൽ ഉൾച്ചേർത്തവയാണ് നിങ്ങൾ പവർ കൈമാറാൻ ശ്രമിക്കുന്ന കറങ്ങുന്ന യന്ത്രങ്ങൾ അല്ലെങ്കിൽ കറങ്ങുന്ന ഏതൊരു സിസ്റ്റത്തിലും നിങ്ങൾക്ക് ഈ ബെയറിംഗുകൾ ഉണ്ട് അത് അവയുടെ അവസ്ഥകളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നവയെ അനുവദിക്കും ഇവയെല്ലാം ആഴത്തിൽ ഉൾച്ചേർത്തവയാണ് ഇവ ചില സിസ്റ്റങ്ങളിൽ ഉൾക്കൊള്ളുന്നു അതിനാൽ ഏതെങ്കിലും ഇൻവേസീവ് അല്ലാത്ത അളക്കുന്ന രീതി കേസിംഗിന്റെ പുറത്തുളളത് അളക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് യഥാർത്ഥത്തിൽ ബെയറിംഗ് നേരിട്ട് അളക്കാൻ പോകുന്നില്ല ഈ കാന്തങ്ങൾ നിങ്ങൾ ഓർക്കുക ഇന്നർ റേസിൽ സ്ഥാപിച്ചിരിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് താപനില നേരിട്ട് അളക്കുന്ന ഇലക്ട്രോണിക് അളക്കൽ സംവിധാനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ കാന്തികക്ഷേത്രം അളക്കുകയും ചെയ്യും ഈ ബോർഡിൽ നിന്ന് വരുന്നവ എങ്ങനെ പിടിച്ചെടുക്കും ഇതാണ് ഒരു ഹാൾ സെൻസർ ഈ ഇലക്ട്രോണിക് ഉപകരണം പ്രധാനമായും കാന്തികക്ഷേത്രത്തിലെ മാറ്റം അളക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പ്രാരംഭ കാന്തികക്ഷേത്രം നിരീക്ഷിക്കാൻ തുടങ്ങുന്നു ഒപ്പം ബെയറിംഗ് മോശം അവസ്ഥയിൽ ആണെങ്കിൽ കാന്തികക്ഷേത്രത്തിൽ ഒരു മാറ്റമുണ്ടാകും അത് ഈ ഹാൾ സെൻസർഇലക്ട്രോണിക്സ് നേരിട്ട് പിടിച്ചെടുക്കുന്നു ഈ ഇലക്ട്രോണിക്സ് എല്ലാം ഇപ്പോൾ ആവശ്യമായ ആശയവിനിമയ യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ രസകരമായ ഭാഗം ഈ പ്രത്യേക സിസ്റ്റം പ്രധാനമായും നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവയെല്ലാം ഒരുമിച്ച് എങ്ങനെ ചേർക്കും എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതുപോലുള്ള ഒരു ബോർഡിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു ഇത് ഞങ്ങൾ ലാബിൽ വികസിപ്പിച്ചെടുത്ത പിസിബി ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വയറുകളെ ഇതിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഇന്റർഫേസുകളുണ്ട് സിസ്റ്റത്തിനും ഒരു തരത്തിലുള്ള എനർജി സ്റ്റോറേജ് ഉപകരണവുമുണ്ട് ഇതിനെ ഒരു സൂപ്പർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു അൾട്രാ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നു ഇത് ബെയറിംഗ് താപനില അളക്കുന്നതിന് ഊർജ്ജം സംഭരിക്കുന്നു ആവശ്യമായ പവർ മാനേജുമെന്റ് സർക്യൂട്ടുകളും കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളും ഇവയ്ക്ക് പിന്നിലുണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിൽ കുറച്ചുകൂടി വിശദമായി നോക്കാം ഇതാണ് നിങ്ങൾക്കാവശ്യമുള്ള ചെറിയ സിസ്റ്റം നിങ്ങൾക്ക് കാണുന്ന വിധത്തിൽ വെക്കാം ഈ ചെറിയ വെളുത്ത ഭാഗം നിങ്ങൾ ഇവിടെ കാണുന്നു ഈ വെളുത്ത ഭാഗമാണ് ഈ എസ്ഒസിയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് ലോ എനർജി മൊഡ്യൂളിന്റെ ചിപ്പ് ആന്റിന നോർഡിക് സെമികണ്ടക്ടർ എന്ന കമ്പനി പറയുന്നത് എസ്ഒസിഎന്നാൽ സിസ്റ്റം ഓൺ ചിപ്പ് എന്നാണ് ഈ ചിപ്പ് വാങ്ങിയ കമ്പനിയുടെ പേരാണ് നോർഡിക് സെമികണ്ടക്ടർ ഈ ചിപ്പിനെ എൻആർഎഫ് എന്ന് വിളിക്കുന്നു വളരെ ജനപ്രിയമായ ഒരു മൈക്രോകൺട്രോളർ ഈ ഘട്ടത്തിൽ ഈ മൈക്രോകൺട്രോളറിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഈ സിസ്റ്റത്തിന് മൈക്രോകൺട്രോളർ കൂടാതെ ഒരു ബ്ലൂടൂത്ത് ലോ എനർജി റേഡിയോയുമുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബ്ലൂടൂത്ത് കുറഞ്ഞ ഊർജ്ജം ഉളള ഐഎസ്എം ബാൻഡ് ഉപയോഗിക്കുന്നു ഐഎസ്എം ബാൻഡ് 2 4 ജിഗാഹെർട്സ് ആവൃത്തി പരിധിയിൽ പ്രവർത്തിക്കുന്നു ഇതിനെ സ്മാർട്ട് ബ്ലൂടൂത്ത് എന്നും വിളിക്കുന്നു വാസ്തവത്തിൽ BLE 4 0 സിസ്റ്റം ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതിലേക്ക് നീക്കി ഏറ്റവും പുതിയത് യഥാർത്ഥത്തിൽ 5 0 BLE ആണ് കുറച്ചുകഴിഞ്ഞ് നമ്മൾ ഇതിൻറെ വിശദാംശങ്ങളിലേക്ക് കടക്കും ഇതിൻറെ വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടായിരുന്നു ഒരു 4 0 ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പറയും 4 X അടിസ്ഥാന 4 0ൽ ചില മെച്ചപ്പെടുത്തലുകൾ വർഷങ്ങളായി സംഭവിച്ചു പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം നമ്മൾ ഈ സിസ്റ്റത്തിൽ താപനില നിരീക്ഷിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഈ താപനില നിയോഡീമിയം കാന്തം ഉപയോഗിച്ച് നിരീക്ഷിച്ചു നമ്മൾ ഇതാണ് മുമ്പത്തെ ചാർട്ടിൽ കണ്ടതും വിശദീകരിച്ചതും നിയോഡൈമിയം കാന്തങ്ങൾ ഇവ ഈ ബെയറിംഗുമായി ബന്ധിപ്പിച്ചിരുന്നു അവ ഹാൾ സെൻസറുകൾ ഉപയോഗിച്ച് കാന്തികക്ഷേത്രത്തിലെ മാറ്റം നിരീക്ഷിക്കുന്നു അത് ഈ നല്ല ചെറിയ എസ്ഒസിയിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു നല്ല ഐഒടി സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ബോൾ ബെയറിംഗിന്റെ താപനില നിരീക്ഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് ഒപ്പം ഈ സമ്പൂർണ്ണ സിസ്റ്റം നിർമ്മിക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ച പേപ്പറിലേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിന്നു ഈ ബോർഡിന്റെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കും പക്ഷേ നിർത്തുന്നതിന് മുമ്പ് ഈ ബോർഡ് എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ബോർഡിന്റെ ഒരു ചിത്രം വരയ്ക്കാം അതിനാൽ നമുക്ക് തിരികെ പോകാം ഈ ബോർഡിൽ യഥാർത്ഥത്തിൽ ഉള്ളതെല്ലാം വരയ്ക്കാം അതിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ബോർഡിന് യഥാർത്ഥത്തിൽ ഈ എൻആർഎഫ് NRF 51822 ഉണ്ട് തീർച്ചയായും ഈ 51822 ന് സാധാരണയായിമൊബൈൽ ഫോൺ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരുപക്ഷേ ഡ്രൈവർ ഡാഷ്ബോർഡുമായി വയർലെസ് ആശയവിനിമയത്തിനായി ബ്ലൂടൂത്ത് ലോ എനർജി മൊഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ പരാമർശിച്ചു നമുക്ക് പുനരാരംഭിക്കാം കാരണം ഇത് ഒരു ഓട്ടോമൊബൈലിന്റെ ഭാഗമായ ഒരു ബോൾ ബെയറിംഗ് ആണെന്നും ഓട്ടോമൊബൈൽ ബെയറിംഗിന്റെ താപനില അളക്കുകയും ഓട്ടോമൊബൈൽ ഡ്രൈവറിന്റെ ഡാഷ്ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ബോൾ ബെയറിംഗ് ഒരു വർക്ക്ഷോപ്പിലെ ഓപ്പറേറ്ററുടെ ഭാഗമാകാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ലെയ്ത്തുകൾ ഉള്ള ഒരു ഫാക്ടറി സജ്ജീകരണത്തിൽ അല്ലെങ്കിൽ ലെയ്ത്ത് സിസ്റ്റത്തിലുള്ള ഒരു മില്ലിംഗ് മെഷീൻ അവിടെയും കറങ്ങുന്നതിന് ഈ ബോൾ ബെയറിംഗുകൾ ധാരാളം ഉണ്ട് ഒരു മോട്ടോർ കണക്റ്റുചെയ്തിരിക്കുന്ന ഒരു ഭ്രമണ സംവിധാനം ഉള്ളിടത്ത് നിങ്ങൾക്ക് ഈ ബോൾ ബെയറിംഗ് ആവശ്യമാണ് വ്യത്യസ്ത വലുപ്പങ്ങളുണ്ട് ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ കറങ്ങുന്ന എല്ലാ യന്ത്രങ്ങൾക്കും ഈ ബോൾ ബെയറിംഗുംആവശ്യമാണ് ഈ ബോൾ ബെയറിംഗിന്റെ താപനില ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയാൻ താൽപ്പര്യമുള്ളയാൾ അതിനാൽ അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും ഏതെങ്കിലും നിർണായക പാരാമീറ്ററുകൾ അവന്റെ മൊബൈൽ ഫോണിൽ നേരിട്ട് പ്രദർശിപ്പിക്കും ഈ ഐഒടി സിസ്റ്റം നോക്കൂ അവിടെ ഉപകരണങ്ങളുണ്ട് തുടർന്ന് നിങ്ങൾ നിരവധി പാരാമീറ്ററുകൾ നിർണായകമായി നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു ഉപകരണത്തിന്റെ പാരാമീറ്ററുകൾ ഉപകരണത്തിന്റെ അവസ്ഥ നിരീക്ഷിക്കുന്നു എന്താണ് നമ്മൾ പരാമർശിച്ച ഈ ബോർഡിന്റെ പുതുമ എന്തുകൊണ്ടാണ് ഈ ബോർഡ് വളരെ പ്രധാനംപുറകിലും മുൻഭാഗത്തും അത് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ എൻആർഎഫിന് വ്യക്തമായും പവർ കൊടുക്കണം അതിനർത്ഥം അതിന് ഒരു വിഡിഡിയും ഗ്രൌണ്ടും ആവശ്യമാണ് അതിനാൽ നമുക്ക് ഇതിനെ വിഡിഡിയും ഇത് ഗ്രൌണ്ടും ആണ് നല്ല കാര്യം എന്തെന്നാൽ ഈ എൻആർഎഫ് ഹാൾ സെൻസറിൽ നിന്നുള്ള ഡാറ്റ അതിന്റെ ചില ഇന്റർഫേസുകളിലൂടെ പിടിച്ചെടുക്കുന്നു അത് ഒരു അനലോഗ് ഇന്റർഫേസാണെങ്കിൽ അത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഇന്റർഫേസ് വഴിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ഒരു ബൈനറി സ്റ്റാറ്റസ് ആണെന്ന് നമുക്ക് പറയാം ഒരു ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ജിപിഐഒ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ ബസ് വഴിയാണെങ്കിൽdigital bus ഒന്നുകിൽ എസ്പിഐ അല്ലെങ്കിൽ ഐ 2 സി ഇന്റർഫേസുകൾ എന്നീ ഡിജിറ്റൽ ബസുകൾ വഴിയാകാം ഇത് ഒരു എഡിസി അനലോഗ് ഇന്റർഫേസാണ് ഇത് ഒരു ജി പി ഐ ഒ വഴി വരുന്ന 1 അല്ലെങ്കിൽ 0 എന്ന ലളിതമായ ബൈനറി സ്റ്റാറ്റസ് ആകാം ഞാൻ ഇത് നീക്കട്ടെ അങ്ങനെ നമ്മളുടെ ചിത്രം വരയ്ക്കാം ഇത് ഗ്രൌണ്ട് ആണ് ഇത് ജിപിഐഒ ആണ് ഇത് ഒരു എഡിസി ആണ് ഇത് എസ്പിഐഒ അല്ലെങ്കിൽ ഐ ടു സി ആണ് അതിനാൽ ഇതാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ച എഡിസി അതിനാൽ ഞാൻ ഈ ചിത്രം മെച്ചപ്പെടുത്തും അതിനാൽ ഇത് എഡിസി ആണ് ഇത് എസ്പിഐഒ ഇത് ജിപിഐഒ ആ ബോർഡിന്റെ പുതുമ എന്താണ് പുതുമ തീർച്ചയായും ഈ ബോർഡിനെ പവർ ചെയ്യുന്നതിനെപറ്റിയാണ് പവർ സപ്ലൈഅല്ലെങ്കിൽ പവർ വിഡിഡി യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുക്കുന്നു അതിനാൽ ഞാൻ ഇത് കാണിക്കാം ഏറ്റവും നിർണായക ബ്ലോക്കാണ് ഈ ബ്ലോക്ക് ഇവിടെ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും നൽകുക ഇവിടെ ഊർജ്ജം ഉണ്ടാകുന്നു ഇത് എങ്ങനെ ഊർജ്ജം ഉണ്ടാക്കുന്നുനമ്മളുടെ ജിജ്ഞാസയെ എങ്ങനെ തൃപ്തിപ്പെടുത്തും നമുക്ക് ഈ ബോർഡ് ഒന്നുകൂടെ നോക്കാം യഥാർത്ഥത്തിൽ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക്തിരിഞ്ഞുനോക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്തു നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഈ കാന്തങ്ങൾ ഇവിടെയുണ്ട് അവ ബെയറിംഗിന്റെ ഇന്നർ റേസുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ ഇതാണ് ഹാൾ സെൻസർ ഇലക്ട്രോണിക്സ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇതിനെ കറക്കി മറ്റൊരു കാഴ്ചപ്പാടിൽ കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു കോയിൽ ആണ് ഇത് അടിസ്ഥാനപരമായി ഒരു കോയിൽ ആണ്ബെയറിംഗുകളുടെ താപനില മനസ്സിലാക്കുന്നതിനായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ നിയോഡീമിയം കാന്തങ്ങളുളളതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിശ്ചിത അളവിലുള്ള വൈദ്യുതോർജം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയുന്നത് നിങ്ങൾ ബെയറിംഗിന്റെ താപനില അളക്കുക മാത്രമല്ല നിങ്ങൾ നിയോഡീമിയം കാന്തങ്ങളും ഉപയോഗിച്ച് അടിസ്ഥാനപരമായി ഒരു നിശ്ചിത അളവിലുള്ള പ്രേരിത എനർജി വോൾട്ടേജും ഉല്പാദിപ്പിക്കുന്നു ഇവിടെ കണക്റ്റുചെയ്തിരിക്കുന്ന ഈ കോയിലിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ പവർ നൽകുന്നു ഈ നീല കലർന്ന നിറം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ഒരു കോയിൽ ആണ് അതിനാൽ ഈ കോയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത അളവിലുള്ള ശക്തി നൽകുന്നു ഈ ബെയറിംഗ് കറങ്ങുമ്പോഴെല്ലാം അത് ഒരു നിശ്ചിത അളവിലുള്ള വോൾട്ടേജിനെ ഇവിടെ ഉണ്ടാക്കുന്നു അതിനാൽ ഒരു നിശ്ചിത അളവിൽ പവർ എടുത്താൽ ഈ പിസിബിഉപയോഗിച്ച് ആ പവർ മുഴുവൻ ഉപയോഗപ്രദമാക്കാൻ അതിനെ സജ്ജമാക്കാം നിങ്ങൾക്ക് ഒരു എസി ഔട്ട്പുട്ട് ആണെങ്കിൽ അതിൽ ഡയോഡുകളുമുണ്ട് റെക്റ്റിഫൈ ചെയ്തു ഈ കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കും ഇത് ഒരു സൂപ്പർ കപ്പാസിറ്ററാണ് കൂടാതെ താപനില അളക്കാൻ ഹാൾ സെൻസറിനെ ശക്തിപ്പെടുത്തുന്നതിനായി ഈ ഊർജ്ജം ഉപയോഗിക്കാം അതിനാൽ തുടക്കത്തിൽ എന്തായാലും കറക്കിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ മുഴുവൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നതായി കാണാം സിസ്റ്റംകറങ്ങുകയും നിശ്ചിത അളവിൽ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു ഇവിടെ ഈ കോയിൽ ഉപയോഗിച്ച് നിശ്ചിത അളവിലുള്ള വോൾട്ടേജ് ഉപയോഗപ്പെടുത്തി ഈ ബോർഡിന് ഇവിടെപവർ നൽകുന്നു നിങ്ങൾ വളരെ ബുദ്ധിയുളള പവർ മാനേജുമെന്റ് ചെയ്യുന്നു ഈ ബ്ലോക്കിൽ ഞാൻ ഇവിടെ കാണിച്ച വളരെ ബുദ്ധിയുളള പവർ മാനേജുമെന്റ് സർക്യൂട്ട് വളരെ മികച്ചതാണ് അതിനാൽ ഞാൻ ഇതിനെ സ്മാർട്ട് എന്ന് വിളിക്കുന്നു നിങ്ങളും ഇവിടെ വളരെ മികച്ച പവർ മാനേജുമെന്റ് ബ്ലോക്ക് ഇടുക സെൻസിംഗ് ആവശ്യങ്ങൾക്കായി ഈ എൻആർഎഫിലേക്ക് വൈദ്യുതി തിരികെ നൽകുക സെൻസിംഗ് ഒന്നുകിൽ അനലോഗ് ടു ഡിജിറ്റൽ എഡിസി പോർട്ടുകൾവഴിയാകാം അല്ലെങ്കിൽ ഡിജിറ്റൽ സെൻസറായ എസ്പിഐ ഐ 2 സി വഴിയാകാം തീർച്ചയായും ഈ നിർദ്ദിഷ്ട സാഹചര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽഎഡിസി ഉപയോഗിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ഹാൾ സെൻസർ ഔട്ട്പുട്ട് ഇവിടെ ഈ എഡിസിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ എഡിസി സാമ്പിളുകൾ അളക്കുന്നു അത് ബാൾ ബെയറിംഗിന്റെ താപനില സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഐഒടി സിസ്റ്റത്തിന്റെ ഒരു വലിയ സംഗ്രഹമാണ് ഒരു നിശ്ചിത പാരാമീറ്റർ അളക്കുന്നതിനുള്ള വഴികൾ എവിടെയാണെന്ന് കാണണം നിങ്ങൾ ഓരോ തവണയും ഐഒടി സിസ്റ്റത്തിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ രൂപകൽപ്പനയുടെ ഇതരമാർഗങ്ങൾ നോക്കേണ്ടതുണ്ട് ഇതരമാർഗ്ഗങ്ങൾ നോക്കുമ്പോൾ മികച്ച പ്രത്യേക ഡിസൈൻ ഒന്നുമില്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ എഞ്ചിനീയറിംഗിലൂടെ നിങ്ങൾ പഠിക്കുന്നതെല്ലാം ആ പ്രത്യേക ആപ്ലിക്കേഷനായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്യുക പക്ഷേ അവയ്ക്ക് നിരവധി ഇതരമാർഗങ്ങളും ആകാം ഇത് അത്തരമൊരു ബദൽ മാർഗമാണ് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാം താപനില അളക്കുന്നതിനുള്ള ഒരേയൊരു മാർഗ്ഗമാണോ ഇത് എന്തുകൊണ്ടാണ് ഞാൻ മറ്റ് അളവെടുക്കൽ രീതികൾ ഉപയോഗിക്കാത്തത് നമുക്ക് നോക്കാം ബെയറിംഗുമായി സമ്പർക്കം പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്നാൽ ബെയറിംഗിന്റെ താപനില അളക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഒരു മാർഗ്ഗം പറയുക ഐആർ താപനില സെൻസറുകൾ ഇൻവേസീവ് അല്ലാത്ത ഐആർ താപനില സെൻസറുകൾ അതിനാൽ നമ്മുടെ ശ്രദ്ധ മറ്റൊരു തരം സെൻസറിലേക്ക് മാറ്റാം ഇത് പാനസോണിക് എന്ന കമ്പനിയിൽ നിന്നുള്ള ഒരു സെൻസറാണ് ഇതൊരു പാനസോണിക് ഗ്രിഡ് ഐ സെൻസർ ആണ് ഇത് 8 × 8 സെൻസറാണ് അതിനർത്ഥം അവിടെ ഒരു നിശ്ചിത പരിധി ഉൾക്കൊള്ളുന്ന 64 പിക്സലുകൾ അല്ലെങ്കിൽ താപനിലയുടെ അളവെടുക്കുന്ന ഒരു പ്രത്യേക ഇടം എന്ന് ഞാൻ പറയും അതിനാൽ ഈ ഗ്രിഡ് ഐ സെൻസർ മൊത്തത്തിൽ മൈക്രോകൺട്രോളറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നിലവാരമുള്ള മാർഗമാണ് നിങ്ങൾക്ക് ഒരു മൈക്രോകൺട്രോളർ ബ്ലോക്ക് ഉണ്ട് ഈ ചിത്രത്തിലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കിനെക്കുറിച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പരാമർശിച്ചിരുന്നു എസ്പിഐവഴിയോ അല്ലെങ്കിൽ ഐ ടു സി വഴിയോ ഉളള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിനെക്കുറിച്ച് സംസാരിക്കാം ഐ ടു സി യെ യഥാർത്ഥത്തിൽ ഇന്റർ ഐസി കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു എസ്പിഐ സീരിയൽ പെരിഫറൽ ഇന്റർഫേസാണ് ഇത് പ്രധാനമായും 3 അല്ലെങ്കിൽ 4 വയറുകൾ നിങ്ങൾ ഒരു ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന സിസ്റ്റങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നു കൂടാതെ ഐ ടു സി പ്രധാനമായും 2 വയറുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ മൈക്രോകൺട്രോളർ പ്രധാനമായും ഈ ഗ്രിഡ് ഐയിലേക് ഐ ടു സി ഇന്റർഫേസിലൂടെ ആശയവിനിമയം നടത്തുന്നുഇതിനർത്ഥം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വരിയിൽ നിന്ന് മാറ്റി അതിനെ ഇവിടെ 2 വരികൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യാം ഇതാണ് ഗ്രിഡ് ഐ സെൻസർ ഇപ്പോൾ ഞാൻ ഈ അളവുകളുടെ സ്ഥലം വരയ്ക്കും ഞാൻ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യും ഇവയെ തമ്മിൽ ഒരു വരിയിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് വിഡിഡി ഉണ്ട് ഇത് വിഡിഡി യാണ് ഇതാണ് ഗ്രൌണ്ട് ഇതിന് പവർ ആവശ്യമാണ് ഈ ഐ 2 സി യുമായി ബന്ധപ്പെട്ട ഈ 2 വരികൾക്ക് പേരുണ്ട് അവയെ എസ്സിഎൽഎന്നും എസ്ഡിഐ എന്നും വിളിക്കുന്നു ഇവിടെ എസ്സിഎൽ സീരിയൽ ക്ലോക്കിനെ സൂചിപ്പിക്കുന്നു ഇതാണ് എസ്ഡിഎ ഇവ വിഡിഡിയിലേക്കുള്ള 2 പുൾ അപ്പ് റെസിസ്റ്ററുകളാണ് ഈ 2 റെസിസ്റ്ററുകളുടെ സാധാരണ മൂല്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം ഇപ്പോൾ പുൾ അപ്പ് റെസിസ്റ്ററുകൾ ആവശ്യമാണെന്ന് അനുമാനിക്കുന്നു ഈ എസ്സിഎൽ പ്രധാനമായും ക്ലോക്കാണ് എസ്ഡിഎ ഗ്രിഡ് ഐയിൽ നിന്ന് മൈക്രോകൺട്രോളറിലേക്ക് ഒഴുകുന്ന ഡാറ്റയാകാം ഒരു ക്ലോക്കിന് അധിഷ്ഠിതമായി മൈക്രോകൺട്രോളറിൽ നിന്ന് ഗ്രിഡ് ഐ സെൻസറിലേക്ക് പോകുന്ന കമാൻഡ് ആകാം അത്രയും ലളിതമാണ് അത്യാവശ്യ ഇന്റർഫേസാണ് ഇത് ഈ സജ്ജീകരണത്തിലേക്ക് മടങ്ങുമ്പോൾ എങ്ങനെ ഈ മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥ പ്രയോഗത്തിൽ എങ്ങനെ വരുത്തുവെന്നത് നോക്കാം ഈ ഹാർഡ്വെയർ നമുക്ക് നോക്കാം നിങ്ങൾക്ക് കാണാനാകുന്ന ഈ ഹാർഡ്വെയറിന് ഈ പാനസോണിക് സെൻസർ ഉണ്ട് ഇതാണ് ഗ്രിഡ് ഐ സെൻസർ നമ്മൾ ഇത് ഉപയോഗിച്ച് എന്തുചെയ്തുവെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ആർഡുനോ ബോർഡ് ആണ് ഇതാണ് നമ്മൾ സംസാരിക്കുന്ന മൈക്രോകൺട്രോളർ ബോർഡ് അതാണ് ഇവ രണ്ടിനുമിടയിലുള്ള അതിന്റെ ഇന്റർഫേസ് നിങ്ങൾ ഈ ഐ ടു സി ഡ്രൈവർ വികസിപ്പിച്ചെടുത്താൽ നിങ്ങൾ എന്ത് കാണുന്നു നിങ്ങൾ അളക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഉപരിതലത്തിലും ഇത് ഫോക്കസ് ചെയ്താൽ 64 പിക്സൽ ഘടകങ്ങൾ കാണുംഞാൻ അത് ഇവിടെ കാണിക്കുന്നു നിങ്ങൾ കാണുന്ന ഈ 64 ഗ്രിഡ് ഐ പിക്സൽ ഘടകങ്ങൾ താപനിലയെ സൂചിപ്പിക്കുന്നു ഞാൻ ഗ്രിഡ് ഐ സെൻസറിന്റെ ദിശ മാറ്റുക ആണെങ്കിൽ ഇതും മാറും ആദ്യം നമുക്ക് ഈ ഗ്രിഡ് ഐ സെൻസർ ഒരു പ്രത്യേക ദിശയിൽ ഫോക്കസ് ചെയ്യുന്നത് കാണാം അതിനാൽ നമുക്ക് ഈ ഗ്രിഡ് ഐ സെൻസർ ഇപ്പോൾ റീഫോക്കസ് ചെയ്യാം ഗ്രിഡ് ഐ സെൻസർ ഇതുപോലെയാക്കാം ഇപ്പോൾ നമുക്ക് സ്നാപ്പ്ഷോട്ട് നോക്കാം ഇവിടെ സ്നാപ്പ്ഷോട്ട് നോക്കൂ ഇനി നമുക്ക് ഗ്രിഡ് ഐ സെൻസറിലേക്ക് തിരിഞ്ഞുനോക്കി അതിനെ ഇത് പോലെ തിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവ ഓരോന്നും കാണാൻ കഴിയും 64 പിക്സൽ ഘടകങ്ങളുണ്ട് നിങ്ങൾക്ക് എണ്ണി നോക്കാം താപനിലയെ സൂചിപ്പിക്കുന്ന നല്ല നിറങ്ങളുണ്ട് ഇവിടെ നിറങ്ങൾ ഉണ്ട് നിറങ്ങൾ യഥാർത്ഥത്തിൽ ആപേക്ഷികമാണ് ഓരോ പിക്സൽ മൂലകത്തിന്റെയും താപനില കുറച്ച് ഏരിയകളിൽ മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ആദ്യത്തെ പിക്സൽ ഘടകം 1 ഡിഗ്രി 35 34 മാറുന്നു അങ്ങനെ രണ്ടാമത്തെ പിക്സൽ ഘടകം യഥാർത്ഥത്തിൽ 36 ആയി മാറുന്നു അതിനാൽ ഇത് പ്രധാനമായും ഇത് യഥാർത്ഥത്തിൽ അളക്കുന്ന താപനില മൂല്യങ്ങളുടെ ഒരു ശ്രേണി നിങ്ങൾക്ക് നൽകുന്നു അവയിൽ നിന്നാണ് താപനില അളക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രിഡ് ഐ സെൻസറിന്റെ സവിശേഷത എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് എഴുതാം അത്തരമൊരു സെൻസറിന്റെ ഊർജ്ജ ഉപഭോഗം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ആശങ്കപ്പെടുന്നത് നമ്മൾ എന്താണ് ചെയ്തത് എന്നുവച്ചാൽ ഇത് 3 3 വോൾട്ടിൽപ്രവർത്തിപ്പിച്ചു ഈ സെൻസറിന്റെ കറണ്ട് ഉപഭോഗം നോർമൽ മോഡിൽ 4 5 mA എന്ന് പറയാം സെൻസർ പിന്തുണയ്ക്കുന്ന മറ്റ് മോഡുകൾ ഉണ്ട് അവ ഇപ്പോൾ പ്രയോജനപ്പെടില്ലായിരിക്കാം നിങ്ങൾ ഈ പ്രത്യേക കാര്യം നോക്കി കൊണ്ട് പവർ മാനേജുമെന്റ് ചെയ്യേണ്ടിവരും അതിനാൽ പൂർണ്ണതയ്ക്കായി ഈ 3 സവിശേഷതകൾ ഈ 3 സംഖ്യകൾ ഞാൻ എഴുതട്ടെ നോർമൽ മോഡിൽ 4 5 mA സ്ലീപ്പ് മോഡിൽ 0 2 mA സ്റ്റാൻഡ്ബൈ മോഡിൽ 0 8 mA ഈ നോർമൽ മോഡ് മാത്രം നമ്മൾ പരിഗണിക്കും മറ്റ് 2 മോഡുകൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ മോഡുകൾ പ്രധാനപെട്ടത് ഐഒടികൾക്കായുള്ള രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഭൌതിക ചുറ്റുപാടുകളിൽ നിന്നും മനസ്സിലാക്കുന്നതും ബാറ്ററികളിൽ നിന്നും എടുക്കുന്നതും നോക്കുമ്പോൾ ഈ ബാറ്ററികൾ എത്രത്തോളം നീണ്ടുനിൽക്കും ഈ ബാറ്ററികൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ചിലവ്എന്നതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട് അതിനാൽ ഈ ഉപകരണം യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി നിരീക്ഷിക്കുകയോ വിന്യസിക്കുകയോ ചെയ്യുന്ന സമയം നിങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ജീവിതകാലം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് ഐഒടി വിന്യാസത്തിന് തന്നെ ഒരു വലിയ ചിലവ് വരാൻ ഇടയാക്കും അത് ശരിക്കും വരുമ്പോൾ നിങ്ങൾ വളരെ വലിയ അളവിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വിലമതിക്കില്ല കാരണം 2020 ആകുമ്പോഴേക്കും കോടിക്കണക്കിന് ഉപകരണങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ചില റിപ്പോർട്ടുകൾ 20 ബില്ല്യൺ എന്ന് പറയുന്നു 50 ബില്ല്യൺ എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു അതിനാൽ വലിയ സംഖ്യയുണ്ടാകുമെന്ന് ഇവയെല്ലാം സൂചിപ്പിക്കുന്നു ഈ ഉപകരണങ്ങളിൽ ഓരോന്നും ബാറ്ററികൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ശരി അത് ഒരു ചോദ്യമാണ് ഈ കോഴ്സിൽ നമ്മൾ ശ്രമിക്കുകയും അതിൻറെ ഉത്തരം നൽകുകയും ചെയ്യും ബാറ്ററി നോക്കൂ രസകരമായ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക മാർഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചു നിങ്ങൾക്ക് ശരിക്കും സിസ്റ്റത്തിൽ നിന്ന് തന്നെ അവസരോചിതമായി ഊർജ്ജം എടുക്കാം അതിനാൽ ഇത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു നല്ല സാധ്യതയാണെന്ന് നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിൽ നിന്ന് തന്നെ വേണ്ടവിധത്തിൽ ഊർജ്ജം ഉണ്ടാക്കുക നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഘടനാപരമായി ഈ ഊർജ്ജം ഉണ്ടാക്കുന്നതിന്റെ മുഴുവൻ പരിധിയും നോക്കാം നമ്മൾ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പാരാമീറ്ററുകൾ നിങ്ങൾ നോക്കണം 5 mAനോർമൽ മോഡും സ്ലീപ്പ് മോഡും സ്റ്റാൻഡ്ബൈ മോഡും നിങ്ങൾ സെൻസർ ഉൾപ്പെടെയുള്ള ഐഒടി സിസ്റ്റത്തിന് ഊർജ്ജ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ മാത്രമാണ് നമ്മൾ 3 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ 4 5 mA എടുക്കുന്നു നിങ്ങൾ ഒരു ലളിതമായ ഗുണനം ചെയ്താൽ ഇത് നിങ്ങൾക്ക് 12 മില്ലിവാട്ടും 1 5 മില്ലിവാട്ടും നൽകും ഇത് 4 ഗുണം 3 12 മില്ലിവാട്ട് 0 5 ഗുണം 3 1 5മില്ലിവാട്ട് ഇത് രണ്ടും കൂട്ടിയാൽ എനിക്ക് 13 5 മില്ലിവാട്ട് കിട്ടും അതിനാൽ അത് മോശമല്ല അത് കുഴപ്പമില്ല അത് അത്യാവശ്യം നല്ല പവർ ആണ് 5 മില്ലിവാട്ട് പവർ നിങ്ങൾ എപ്പോഴും ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ അത് നഷ്ടമാണ് അതിനാൽഇത് ഒരു സ്റ്റാൻഡ്ബൈ മോഡിലേക്ക്മാറ്റുന്നതിനുള്ള ഓപ്ഷനുകളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് സ്ലീപ്പ് മോഡും സ്ലീപ്പ് മോഡ് വളരെ നല്ലതാണ് കാരണം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് വളരെ ഊർജ്ജം എടുക്കുന്നില്ല ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു